സ്വാഗതം ഡാറ്റാബേസ് ഇടപാടുകളെക്കുറിച്ചുള്ള നമ്മളുടെ പഠനം നമ്മൾ തുടരും നമ്മൾ ഡാറ്റാബേസ് ട്രാൻസാക്ഷന്റെ അടിസ്ഥാനങ്ങൾ അതിന്റെ സവിശേഷതകൾ റിക്കവറി മാനേജുമെന്റ് സിസ്റ്റംസും പഠിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ ഷെഡ്യൂളുകൾ എന്ന് വിളിക്കപ്പെടുന്നവ ആരംഭിക്കും ഒന്നാമതായി ഒരു ഷെഡ്യൂൾ എന്താണ് ഒരു ഷെഡ്യൂൾ പ്രധാനമായും ഒന്നിലധികം ട്രാൻസാക്ഷനുകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങളുടെ ഒരു ക്രമമാണ് ട്രാൻസാക്ഷനുകളുടെ എണ്ണം ഒന്നോ അതിലധികമോ ആകാം ഒന്നിലധികം ഇടപാടുകളാകാം പ്രധാന ഭാഗം ഇത് കാലക്രമമാണ് ഒന്നിലധികം ട്രാൻസാക്ഷനുകളിൽ നിന്നുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഒന്നിനുപുറകെ ഒന്നായി എഴുതിയിരിക്കുന്നു എന്നാണ് ഒരു ഷെഡ്യൂൾ A യ്ക്ക് എഴുതുന്ന ട്രാൻസാക്ഷൻ 1 B ന് എഴുതുന്ന ട്രാൻസാക്ഷൻ 2 തുടർന്ന് A ൽ നിന്ന് ട്രാൻസാക്ഷൻ 3 എന്നിവ വായിക്കുന്നു ഇത് ഒരു സമയം ക്രമീകരിച്ച ക്രമമാണ് ഒരു ഷെഡ്യൂൾ രൂപപ്പെടുത്തുന്നതിന് ചില നിയമങ്ങളുണ്ട് ട്രാൻസാക്ഷന്റെ ഒരു നിർദ്ദേശം ഒരു ഷെഡ്യൂളിൽ ദൃശ്യമാകുകയാണെങ്കിൽ എല്ലാ നിർദ്ദേശങ്ങളും ട്രാൻസാക്ഷനിൽ നിന്ന് ദൃശ്യമാകണം ട്രാൻസാക്ഷന്റെ എല്ലാ നിർദ്ദേശങ്ങളും ഷെഡ്യൂളിൽ ദൃശ്യമാകണം അല്ലെങ്കിൽ ട്രാൻസാക്ഷന്റെ നിർദ്ദേശങ്ങളൊന്നും ദൃശ്യമാകരുത് അതാണ് ആദ്യത്തെ പ്രോപ്പർട്ടി മറ്റൊന്ന് ഒരു ട്രാൻസാക്ഷന്റെ നിർദ്ദേശങ്ങളുടെ ക്രമമാണ് ഒരു ട്രാൻസാക്ഷനുള്ളിലെ ഓർഡർ നിലനിർത്തണം നമുക്ക് ട്രാൻസാക്ഷനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം ട്രാൻസാക്ഷൻ 1 ആദ്യം എയിലേക്ക് എഴുതുക തുടർന്ന് അത് എ യിൽ നിന്ന് വായിക്കുന്നു ട്രാൻസാക്ഷൻ 1 അടങ്ങുന്ന ആ ഷെഡ്യൂളിൽ ട്രാൻസാക്ഷൻ 1 ആദ്യം എയിലേക്ക് എഴുതുന്നു തുടർന്ന് എയിൽ നിന്ന് വായിക്കുന്നു അത് മാറ്റാൻ കഴിയില്ല ഒരു ട്രാൻസാക്ഷനുള്ളിലെ നിർദ്ദേശങ്ങളുടെ ക്രമം ട്രാൻസാക്ഷൻ ഉൾക്കൊള്ളുന്ന ഷെഡ്യൂളിൽ മാനിക്കണം മുമ്പത്തെ അതേ നിയമം ഉണ്ട് ഒരു ട്രാൻസാക്ഷൻ വിജയകരമായി അവസാനിക്കുകയാണെങ്കിൽ അത് കമ്മിറ്റ് എന്ന് എഴുതുന്നു അതും ഷെഡ്യൂളിന്റെ ഭാഗമാണ് അല്ലാത്തപക്ഷം അത് അബോർട്ട് എന്ന് പറയുകയും ചിലപ്പോൾ ചില ഷെഡ്യൂളുകളിൽ നമ്മൾ ഷെഡ്യൂൾ കമ്മിറ്റ് പഠിക്കുകയും അബോർട്ട് ഒഴിവാക്കുകയും ചെയ്യാം കാരണം അത് പ്രത്യേക പഠനത്തിന് ആവശ്യമില്ലായിരിക്കാം മനസ്സിലാക്കാൻ നമുക്ക് ഒരു ഉദാഹരണം നോക്കാം കൃത്യമായി ഒരു ഷെഡ്യൂൾ എന്താണ് ഇവിടെ ഒരു ഉദാഹരണം നോക്കാം രണ്ട് ട്രാൻസാക്ഷനുകൾ ഉണ്ടെന്ന് കരുതുക ഇടപാട് T1 A യുടെ അക്കൌണ്ടിൽ നിന്ന് B ലേക്ക് 50 രൂപ കൈമാറുന്നു തുടർന്ന് ട്രാൻസാക്ഷൻ T2 A യിൽ നിന്ന് B ലേക്ക് 10 ശതമാനം പണം കൈമാറുന്നു ഇവ രണ്ട് ട്രാൻസാക്ഷനുകളാണ് അവ രണ്ടും ഒരു ഷെഡ്യൂളിൽ പ്രതിനിധീകരിക്കാം ഇങ്ങനെയാണ് പ്രതിനിധീകരിക്കാൻ കഴിയുനത് ആദ്യത്തെ ട്രാൻസാക്ഷൻ T1 A ൽ നിന്നും B ലേക്ക് 50 ട്രാൻസ്ഫർ ചെയ്യും അത് r1 ആണ് ഇവിടെ രേഖപ്പെടുത്തൽ ദയവായി ശ്രദ്ധിക്കുക r1 ഷെഡ്യൂളുകൾക്കായി നമ്മൾ ഈ നൊട്ടേഷൻ വീണ്ടും ഉപയോഗിക്കും അതാണ് റീഡ് ഓപ്പറേഷൻ അതുകൊണ്ട് ഇത് ഒരു r ആണ് പിന്നെ ഇത് 1 ഇതാണ് T1 ട്രാൻസാക്ഷൻ ചെയ്യുന്നത് ഈ വായന T1 ട്രാൻസാക്ഷൻ വഴിയാണ് ചെയ്യുന്നത് A വായിക്കപ്പെടുന്നു ഈ ഫോം അർത്ഥമാക്കുന്നത് ട്രാൻസാക്ഷൻ T1 A വായിക്കുന്നു എന്നാണ് അതാണ് ഫോം അതാണ് നൊട്ടേഷൻ അത് റീഡ് ആണെങ്കിൽ അത് ആർ അല്ലാത്തപക്ഷം അത് W ആണ് ഇത് റൈററ് ആണ് നമുക്ക് ഷെഡ്യൂൾ എന്ന പോയിന്റിലേക്ക് മടങ്ങാം ഇത് ഇനിപ്പറയുന്ന രീതിയിൽ എഴുതാം r1 തുടർന്ന് നമ്മൾ ഇത് തുടർച്ചയായി എഴുതാം A A 50 ഒരു കാലക്രമത്തിൽ നമ്മൾ അത് ഇടത് നിന്ന് വലത്തേക്ക് ഒരു സ്വാഭാവിക വായനയായി എഴുതും അത് എ ലേക്ക് എഴുതുന്നു തുടർന്ന് ബി വായിക്കുന്നു എല്ലാം ഇപ്പോഴും ട്രാൻസാക്ഷൻ 1 ന് നടക്കുന്നു പിന്നെ പ്ലസ് 50 ഉണ്ട് പിന്നെ ട്രാൻസാക്ഷൻ 1 പിന്നെ അത് B യ്ക്ക് എഴുതുന്നു ഇത് ട്രാൻസാക്ഷൻ പൂർത്തിയാക്കുന്നു 1 നിങ്ങൾ ഈ ആദ്യ ട്രാൻസ്ഫർ ഓർക്കുന്നുവെങ്കിൽ ഈ ട്രാൻസാക്ഷൻ സംഭവിക്കും ഇത് ഇനിപ്പറയുന്ന രീതിയിൽ എഴുതുകയും വായിക്കുകയും ചെയ്യും ട്രാൻസാക്ഷൻ രണ്ട് വായിക്കാൻ തുടങ്ങുന്നു അവിടെ ഒരു താൽക്കാലിക വേരിയബിൾ ഉപയോഗിക്കുന്നു നമുക്ക് പറയാം ഇത് എ യുടെ 10 ശതമാനമാണ് അതായത് പിന്നെ A A t പിന്നെ W2 എഴുതുക അപ്പോൾ അത് ആദ്യ ഇടപാട് ചെയ്തതിന് സമാനമാണ് ഈ പണം ബിയിലേക്ക് മാറ്റുന്നു ഇപ്പോൾ ഇത് ഒരു ഷെഡ്യൂളാണ് മറ്റൊരു ഷെഡ്യൂൾ ഉണ്ടായേക്കാം അത് താഴെ പറയുന്ന രീതിയിൽ എഴുതിയിരിക്കുന്നു നിർദ്ദേശങ്ങളിൽ ചെറിയ മാറ്റമുണ്ടാകാം ഒരു പ്രധാന കാര്യം ഈ ട്രാൻസാക്ഷനെ ഒരു സീരിയൽ ഷെഡ്യൂൾ എന്നാണ് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് അതിനെ സീരിയൽ എന്ന് വിളിക്കുന്നത് കാരണം ട്രാൻസാക്ഷനുകൾ ആദ്യം എല്ലാം പൂർത്തിയാക്കുന്നത് പ്രവർത്തനങ്ങളാണ് ഇത് ഇവിടെ എല്ലാം പൂർത്തിയാക്കുന്നു തുടർന്ന് ട്രാൻസാക്ഷൻ 2 ആരംഭിക്കുന്നു അതുകൊണ്ടാണ് ഇതിനെ സീരിയൽ എന്ന് വിളിക്കുന്നത് ശ്രദ്ധിക്കുക നമ്മൾ ഇവിടെ കമ്മിറ്റ് അബോർട്ട് പ്രസ്താവനകൾ പരാമർശിച്ചിട്ടില്ല കാരണം നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് സീരിയലൈസബിലിറ്റിയെക്കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിക്കുന്നതിനെ സീരിയലിസബിലിറ്റി എന്ന് വിളിക്കുന്നു ട്രാൻസാക്ഷൻ നിർത്തലാക്കിയോ അല്ലെങ്കിൽ കമ്മിറ്റഡായോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ല ഈ ഉദാഹരണത്തിലേക്ക് തിരികെ വരുന്നു ഇതാണ് സീരിയൽ ഷെഡ്യൂൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ മുഴുവൻ ഷെഡ്യൂളും അളക്കുകയും ചില ട്രാൻസ്പോസിഷനുകൾ നടത്തുകയും ചെയ്താൽ തുല്യമായ ഒരു ഷെഡ്യൂൾ നിർമ്മിക്കാൻ കഴിയും ഇത് തത്തുല്യമായ ഷെഡ്യൂളാണ് തത്തുല്യമായ ഷെഡ്യൂൾ ഞാൻ എഴുതട്ടെ ശ്രദ്ധിക്കുക ഞാൻ ഇവിടെ ചെയ്യുന്നത് ട്രാൻസാക്ഷൻ 1 ന് മുമ്പാണ് ബി മുതലായവയ്ക്ക് എഴുതിയിട്ടുണ്ട് ട്രാൻസാക്ഷൻ 2 വായിക്കാൻ തുടങ്ങുന്നു അത് നല്ലതാണ് അത് ഒരു പ്രശ്നമാകരുത് പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് വാദിക്കാം ഇപ്പോൾ ഒരാൾക്ക് ഇത് ചെയ്യാൻ കഴിയും ഇത് സീരിയൽ അല്ല കാരണം 1 2 എന്നിവയുടെ നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ 1 പിന്നെ 2 പിന്നെ വീണ്ടും 1 പിന്നെ വീണ്ടും ഇത് 2 മുതലായവ ഇത് സീരിയൽ അല്ല എന്നിരുന്നാലും ട്രാൻസാക്ഷന്റെ അർത്ഥത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും ഇത് നമ്മൾ നേരത്തെ കണ്ട സീരിയൽ ഷെഡ്യൂളിന് തുല്യമാണ് തത്തുല്യമായത് വളരെ പ്രധാനപ്പെട്ട ഒരു പദമാണ് ഇനിപ്പറയുന്ന ആശയം സീരിയൽ ഷെഡ്യൂളിന് പകരം ഈ ഷെഡ്യൂൾ പ്രവർത്തിപ്പിച്ചു എന്നതാണ് ട്രാൻസാക്ഷനുകൾ പരസ്പരവിരുദ്ധമാണ് ട്രാൻസാക്ഷൻ 1 ഉം 2 ഉം ഒരേസമയം നടക്കുന്നു രണ്ട് ട്രാൻസാക്ഷനുകളും വിജയകരമായി പൂർത്തിയാകുമെന്ന് നമ്മൾ കരുതുന്നു ഈ ഷെഡ്യൂളും സീരിയൽ ഷെഡ്യൂളും ഉണ്ട് ഡാറ്റാബേസ് ഏത് അവസ്ഥയിൽ ആണെങ്കിലും രണ്ട് ഷെഡ്യൂളുകളുടെയും ഫലം ഒന്നുതന്നെയാണ് അങ്ങനെ അവ ഡാറ്റാബേസിന്റെ അതേ അവസ്ഥയിൽ നിന്ന് ആരംഭിക്കുകയാണെങ്കിൽ അവസാനം ഡാറ്റാബേസിന്റെ അതേ അവസ്ഥയിൽ അവസാനിക്കും അതുകൊണ്ടാണ് ഇവയെ തത്തുല്യമെന്ന് വിളിക്കുന്നത് നമ്മൾ ഇത് കുറച്ചുകൂടി പഠിക്കും പക്ഷേ അതിനുമുമ്പ് ഇവിടെ മറ്റൊരു ഷെഡ്യൂൾ ഉണ്ട് അത് പിന്തുടരുന്നത് അതാണ് നമ്മൾ ഒരു സീരിയൽ ഷെഡ്യൂൾ കണ്ടു അതിന് തുല്യമായ ഒരു ഷെഡ്യൂൾ നമ്മൾ കണ്ടു ഇപ്പോൾ നമുക്ക് മറ്റൊരു ഷെഡ്യൂൾ നോക്കാം നമുക്ക് വളരെ വ്യക്തമായി അറിയാവുന്നതുപോലെ ഇത് സീരിയൽ അല്ല കാരണം ഇത് വീണ്ടും ഇന്റർ ലീവ്ഡ് ആണ് ഞങ്ങൾക്ക് r2 പിന്നെ r1 പിന്നെ വീണ്ടും r2 എന്നിങ്ങനെ ഉണ്ട് അതിനാൽ ഇത് സീരിയൽ അല്ല ഇത് നമ്മൾ നേരത്തെ കണ്ട സീരിയൽ ഷെഡ്യൂളിന് തുല്യമല്ല എന്തുകൊണ്ട് ഇത് തുല്യമല്ല ഒരു ചെറിയ പരിശോധന നടത്തിയാൽ ഇത് തുല്യമല്ലെന്ന് കാണിക്കും കാരണം ഇവിടെ ടി എന്താണെന്ന് നോക്കുക ഇതാണ് ടി വായിക്കുന്നത് ഇത് ഒരു താൽക്കാലിക മൂല്യമാണ് ട്രാൻസാക്ഷൻ 1 എയ്ക്ക് എഴുതുന്നതിന് മുമ്പുള്ള 10 ശതമാനമാണിത് ഇത് ശരിയല്ല കാരണം ഈ ടി വായിക്കുമ്പോൾ അത് ശരിയായിരിക്കില്ല w2 ആദ്യം എഴുതുകയും തുടർന്ന് W1 എഴുതുകയും ചെയ്യുന്നു ഇത് തുല്ല്യമല്ല സീരിയൽ ഷെഡ്യൂൾ പോലെ ഡാറ്റാബേസിൽ ഇത് ബാധിക്കില്ല ഷെഡ്യൂളുകളുടെ സീരിയലൈസബിലിറ്റിയെക്കുറിച്ചുള്ള പഠനം ഇനിപ്പറയുന്നവയാണ് ട്രാൻസാക്ഷനുകൾക്ക് ഒരു സീരിയൽ ഓർഡർ ഉണ്ടെന്ന് കരുതുക സീരിയൽ ഓർഡർ എന്നാൽ രണ്ട് ട്രാൻസാക്ഷനുകൾ ഉണ്ടെന്ന് കരുതുക ഒന്നുകിൽ T1 ന്റെ എല്ലാ പ്രവർത്തനങ്ങളും സംഭവിക്കുകയും T2 അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ആരംഭിക്കുകയും പൂർത്തിയാക്കുകയും ചെയ്യുന്നു അല്ലെങ്കിൽ T2 ആദ്യം അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കുകയും തുടർന്ന് T1 ആരംഭിക്കുകയും ചെയ്യുന്നു ഇവ രണ്ട് സീരിയൽ ഷെഡ്യൂളുകളാണ് ഇപ്പോൾ മറ്റൊരു ഷെഡ്യൂൾ ഈ സീരിയൽ ഷെഡ്യൂളിന് തുല്യമാണെന്ന് പറയപ്പെടുന്നു അത് സീരിയൽ ഷെഡ്യൂളുകളിലൊന്നിന്റെ അതേ ഫലമുണ്ടെങ്കിൽ തുല്യതകൾ എങ്ങനെ കാണിക്കാമെന്ന് നമ്മൾ കാണും സീരിയലിസബിലിറ്റിയുടെ പഠനം നമ്മൾ കണ്ടു ഈ തുല്യതയുടെ വ്യത്യസ്ത രൂപങ്ങളുണ്ട് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് രണ്ട് ഷെഡ്യൂളുകൾ തുല്യമാണ് അതിനായി തുല്യതയുടെ രണ്ട് ആശയങ്ങൾ ഉണ്ട് ആദ്യത്തേത് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിലിറ്റിയും രണ്ടാമത്തേത് വ്യൂ സീരിയലിസബിലിറ്റിയുമാണ് നമ്മൾ പഠിക്കുന്ന സീരിയലൈസബിലിറ്റിയുടെ രണ്ട് ആശയങ്ങളാണ് ഇവ ഇപ്പോൾ ഇവ എന്താണ് പക്ഷേ ചില അനുമാനങ്ങളുണ്ട് ഒന്നാമതായി ഈ ട്രാൻസാക്ഷൻ വായനയും എഴുത്തും ഒഴികെയുള്ള മറ്റെല്ലാ പ്രവർത്തനങ്ങളെയും അവഗണിക്കുന്നു വായനയും എഴുത്തും മാത്രമാണ് ഒരു ട്രാൻസാക്ഷൻ പരിഗണിക്കുന്ന രണ്ട് പ്രവർത്തനങ്ങൾ തുല്യതയുടെ ഉദ്ദേശ്യങ്ങൾക്കായി ഇത് തുല്യതയും സീരിയലൈസബിലിറ്റിയും മാത്രമാണ്